ആശംസകൾ മൊഡ്യൂൾ 3 TALE യൂണിറ്റ് 5ലേക്ക് സ്വാഗതം മസ്തിഷ്കം എങ്ങനെ പഠിക്കുന്നുവെന്ന് മനസിലാക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ തുടർച്ചയാണ് ഈ യൂണിറ്റ് മുമ്പത്തെ യൂണിറ്റുകളിൽ നമ്മൾ മനസിലാക്കിയത് തലച്ചോറിന്റെ ശരീരഘടനയെക്കുറിച്ചുള്ള പരിമിതമായ അറിവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ മനസിലാക്കിയത് വച്ച് കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടു സെൻസറുകളിൽ നിന്ന് ഹ്രസ്വകാല മെമ്മറിയിലേക്കുള്ള വിവര കൈമാറ്റം കൈകാര്യം ചെയ്യുന്നതിന് തലച്ചോറിനെ സുഗമമാക്കുന്ന നിർദ്ദിഷ്ട ഇൻസ്ട്രക്ഷൻ രീതികളുണ്ട് മെമ്മറി എങ്ങനെ രൂപപ്പെടുന്നുവെന്നും മെമ്മറിയിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെ വീണ്ടെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഡേവിഡ് സൂസ നൽകിയ തലച്ചോറിന്റെ ഒരു മാതൃക നമ്മൾ സ്വീകരിച്ചു സെൻസറി വിവരങ്ങൾ ഉടനടി മെമ്മറിയിലേക്കും തുടർന്ന് പ്രവർത്തിക്കുന്ന മെമ്മറിയിലേക്കും എങ്ങനെ കടന്നുപോകുന്നുവെന്ന് നമ്മൾ പരിശോധിച്ചു മുമ്പത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കിയ ചില ഇൻസ്ട്രക്ഷൻ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രക്രിയ പോലും സുഗമമാക്കാം നിലവിലെ യൂണിറ്റിൽ നമ്മൾ ഈ പ്രക്രിയ തന്നെ തുടരുന്നു വർക്കിംഗ് മെമ്മറിയിലേക്ക് വിവരങ്ങൾ ലഭിച്ചുകഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന മെമ്മറിയിൽ ഉള്ളവ കൈകാര്യം ചെയ്യുന്നതിന് ഞാൻ തലച്ചോറിനെ എങ്ങനെ സഹായിക്കും ഇത് ദീർഘകാല മെമ്മറിയിലേക്ക് മാറ്റി അവിടെ സൂക്ഷിക്കുക ഇവയെല്ലാം ദീർഘകാല മെമ്മറിയിൽ നിലനിർത്താൻ പോലും നിർദ്ദിഷ്ട പ്രക്രിയകൾ ആവശ്യമാണ് അത് നോക്കാം തീർച്ചയായും മറ്റ് നിരവധി പ്രക്രിയകളുണ്ട് ഉദാഹരണത്തിന് ഞാൻ എങ്ങനെ എന്തെങ്കിലും വീണ്ടെടുക്കും നമ്മൾ അഭിസംബോധന ചെയ്യാൻ പോകാത്ത നിരവധി കാര്യങ്ങളുണ്ട് ദീർഘകാല മെമ്മറിയുടെ രൂപീകരണവും നിലനിർത്തലും മാത്രമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മെമ്മറി നമുക്ക് ഒരു ഭൂതകാലം നൽകുന്നു മെമ്മറിയിൽ സംഭരിച്ചിരിക്കുന്നത് നമ്മുടെ മുൻകാല അനുഭവങ്ങളുടെ ആകെത്തുകയാണ് മെമ്മറി നമുക്ക് ഒരു ഭൂതകാലവും നമ്മൾ ആരാണ് എന്നതിന്റെ റെക്കോർഡും നൽകുന്നു അത് മനുഷ്യ വ്യക്തിത്വത്തിന് അത്യന്താപേക്ഷിതമാണ് നമ്മൾ ആരാണെന്ന് പ്രധാനമായും തീരുമാനിക്കുന്നത് നമ്മുടെ മെമ്മറിയിൽ സംഭരിച്ചിരിക്കുന്നവയാണ് ചില കാരണങ്ങളാൽ മെമ്മറിയുടെ ചില ഭാഗം നീക്കംചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു വ്യക്തിയായിത്തീരും അതിനാൽ മെമ്മറി ഫലപ്രദമായി പറയുന്നു നമ്മൾ എന്താണെന്ന് നമുക്ക് ഒരു അനുമാനവും നടത്താം പ്രായോഗികമായി വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള തലച്ചോറിന്റെ ശേഷി പരിധിയില്ലാത്തതാണ് എന്ന് ഈ ശേഷിക്ക് അപ്പുറത്തുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ തലച്ചോറിന് കഴിയില്ലെന്ന് പറയാൻ ആരും ഇതുവരെ ഒരു കണക്കോ മറ്റോ നൽകിയിട്ടില്ല അതിനാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല നിങ്ങൾ എന്തെങ്കിലും പഠിക്കുമ്പോഴെല്ലാം മസ്തിഷ്കം ശാരീരികവും രാസപരവുമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്നു അതിനർത്ഥം നമ്മുടെ മസ്തിഷ്കം സമാനമല്ല അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ മസ്തിഷ്കം അല്ല ഇന്ന് കാരണം ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ നമ്മൾ ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയി മാത്രമല്ല ആ അനുഭവങ്ങൾ സംഭരിക്കുകയോ പുനർവ്യാഖ്യാനം ചെയ്യുകയോ അല്ലെങ്കിൽ ചില പഴയ ഓർമ്മകൾ പുറന്തള്ളപ്പെടുകയോ ചെയ്തിരിക്കാം അതുകൊണ്ടു ഇന്നത്തെ തലച്ചോർ ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു ഉത്തേജനം ഉണ്ടാകുമ്പോഴെല്ലാം അത് ഒരു കൂട്ടം ന്യൂറോണുകൾ ഒരുമിച്ച് ഉദ്ദീപിപ്പിക്കാൻ കാരണമാകുന്നു ഒരു ന്യൂറോണല്ല ഉത്തേജിപ്പിക്കപ്പെടുന്നത് ഉത്തേജനം ഒരു ചെറിയ സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ അതായത് ഉത്തേജിപ്പിക്കപ്പെട്ട ന്യൂറോണുകളുടെ ഗ്രൂപ്പ് വളരെ ഹ്രസ്വ സമയത്തേക്ക് ഒരു ഗ്രൂപ്പായി ഒരുമിച്ച് നിൽക്കുന്നു അതിനെ സ്റ്റാൻഡ്ബൈ സമയം എന്ന് വിളിക്കുന്നു സ്റ്റാൻഡ്ബൈ സമയത്ത്റിഹേഴ്സൽ പ്രാക്ടീസ് എന്ന് വിളിക്കുന്ന പ്രക്രിയകളിലൂടെ പാറ്റേൺ ആവർത്തിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട ഗ്രൂപ്പിന് ഒരുമിച്ച് നിൽക്കാനുള്ള പ്രവണത വർദ്ധിക്കുന്നു അതായത് ചില ഉത്തേജനങ്ങൾ വരുമ്പോഴെല്ലാം ന്യൂറോണുകളുടെ ചില ഗ്രൂപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു സ്റ്റാൻഡ്ബൈ കാലയളവിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഉത്തേജനത്തിന്റെ ഫലമായി എന്തെങ്കിലും ദീർഘകാല മെമ്മറിയിലേക്ക് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിർദ്ദിഷ്ട പ്രക്രിയകളിലൂടെ കടന്നുപോകണം പരിശീലനവും റിഹേഴ്സലും ഇതിനെ സിനാപ്റ്റിക് അവബോധത്തിന്റെയും സംവേദനക്ഷമതയുടെയും പ്രക്രിയ എന്നും വിളിക്കുന്നു അഥവാ ഇതിനെ ദീർഘകാല പൊട്ടൻഷ്യേഷൻ എന്ന് വിളിക്കുന്നു അതിനർത്ഥം ഈ ന്യൂറൽ പാറ്റേണുകൾ ഒരുമിച്ച് ഉത്തേജിപ്പിക്കപ്പെടുന്നു ഒരാൾ മറ്റൊന്നിനെ ഉദ്ദീപിപ്പിക്കുന്നു ഇത് എൻഗ്രാം എന്ന പുതിയ മെമ്മറി ട്രെയ്സ് രൂപീകരിക്കുന്നതിലേക്ക് നയിക്കുന്നു ഈ വ്യക്തിഗത എൻഗ്രാമുകൾ നെറ്റ്വർക്കുകൾ ആയി രൂപപ്പെടുകയും ഒന്ന് പ്രവർത്തനക്ഷമമാകുമ്പോൾ മുഴുവൻ നെറ്റ്വർക്കും ഒരുമിച്ച് ശക്തിപ്പെടുത്തുകയും അതുവഴി മെമ്മറി നിർമ്മാണം ഏകീകരിക്കുകയും ചെയ്യുന്നു അങ്ങിനെ ഓർമ്മ കൂടുതൽ വീണ്ടെടുക്കാനാകും ഒരു ഉത്തേജക വേളയിൽ ഒരു എൻഗ്രാം രൂപം കൊള്ളുന്നുവെന്ന് കരുതുക നിർദ്ദിഷ്ട പ്രക്രിയകളിലൂടെ റിഹേഴ്സലിലൂടെയും പരിശീലനത്തിലൂടെയും നമ്മൾ അവയെ ശക്തിപ്പെടുത്തുന്നു അത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ രൂപീകരിച്ച ഈ നെറ്റ്വർക്ക് ഇപ്പോൾ നമ്മുടെ മുൻ അനുഭവത്തിൽ ഇതിനകം രൂപപ്പെട്ട മറ്റ് നെറ്റ്വർക്കുകളുമായി ലിങ്കുചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിലവിലുള്ള മെമ്മറികളുമായി പുതിയ മെമ്മറിയെ ബന്ധപ്പെടുത്തുന്നു ഈ നെറ്റ്വർക്കുകൾ നമ്മുടെ മുൻകാല അനുഭവങ്ങളുടെ വിശാലമായ ശ്രേണിയിൽ നിന്നുള്ളതാകാം നിരവധി നെറ്റ്വർക്കുകൾ ബന്ധപ്പെടുത്തിയാൽ അത് ആ പ്രത്യേക മെമ്മറി വീണ്ടെടുക്കുന്നത് എളുപ്പമാക്കുന്നു ഏതൊരു പുതിയ പഠനത്തെയും നമ്മുടെ ഭൂതകാലത്തിൽ നിന്നുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതാണ് നല്ല പഠന പ്രക്രിയ എന്തെങ്കിലും ഒന്ന് ഉത്തേജിപ്പിക്കപ്പെട്ടാൽ അതിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തനക്ഷമമാകും തുടർന്ന് ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആ വിവരങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മെമ്മറിയിലേക്ക് വരും കഥയുടെ ധാർമ്മികത എന്ന് വിളിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മെമ്മറിയിലെ സാധ്യമായത്ര കാര്യങ്ങളിളിലേക്ക് പ്രധാനമെന്ന് നിങ്ങൾ കരുതുന്നതെന്തും ബന്ധപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾ കൂടുതൽ അസോസിയേഷനുകൾ സൃഷ്ടിക്കുമ്പോൾ ഒരു ഉത്തേജനം വഴി കൂടുതൽ നെറ്റ്വർക്കുകൾ പ്രവർത്തിപ്പിക്കുന്നു തുടക്കത്തിൽ തീർത്തും ബന്ധമില്ലാത്തതായി നിങ്ങൾ കരുതുന്ന ഒരു കാര്യവുമായി നിങ്ങൾക്ക് ഒരു വശം ബന്ധിപ്പിക്കാൻ കഴിയുന്നത് അവിടെയാണ് മെമ്മറിയുടെ മറ്റൊരു വശം ഓർമ്മകൾ ഒരുമിച്ചു കേടുകൂടാതെ സൂക്ഷിക്കുന്നില്ല അവ കഷണങ്ങളായി സെറിബ്രമിലുടനീളം വിതരണം ചെയ്യുന്ന സൈറ്റുകളിൽ സൂക്ഷിക്കുന്നു മെമ്മറി കഷണങ്ങളായി മുറിച്ച് ഓരോ കഷണം വ്യത്യസ്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നു അവയെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിയിരിക്കുന്നു എൻഗ്രാമുകളുടെ നെറ്റ്വർക്കുകൾ സംഭരിക്കുമ്പോൾ തന്നെ അവ എങ്ങനെയെങ്കിലും ബന്ധിപ്പിക്കപ്പെടും ഒരു എൻഗ്രാം സജീവമാക്കുന്നത് ഇവന്റുമായോ ഒബ്ജക്റ്റുമായോ ബന്ധപ്പെട്ട നമ്മുടെ ചിന്തകളുടെയും അനുഭവങ്ങളുടെയും ഒരു ഓർമപ്പെടുത്തൽ നൽകുന്നു നിങ്ങൾ ഒരു ഘടകം ട്രിഗർ ചെയ്യുകയാണെങ്കിൽ മറ്റെല്ലാ ഘടകങ്ങളും ഒത്തുചേരും അവിടെയാണ് നിങ്ങൾക്ക് മുൻകാല അനുഭവം പൂർണ്ണമായും അനുഭവപ്പെടുന്നത് വിപുലീകരിച്ച അനുഭവം ഒന്നിലധികം നെറ്റ്വർക്കുകളിൽ മസ്തിഷ്കം സംഭരിക്കുന്നു ഇതിന് പരിധിയില്ല ഒരു സാധാരണ ഡിഫറൻഷ്യൽ സമവാക്യം എങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവം നമ്മൾ ഓർമിക്കുമ്പോൾ ഈ സാധാരണ ഡിഫറൻഷ്യൽ സമവാക്യം നിങ്ങളുടെ മുൻകാലത്തെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് കാലത്തിനനുസരിച്ച് മാറുന്ന എന്തും ഒരു ഡിഫറൻഷ്യൽ സമവാക്യം ഉപയോഗിച്ച് മാത്രമേ പ്രതിനിധീകരിക്കാൻ കഴിയൂ സമയത്തിനനുസരിച്ച് വേരിയബിളുകൾ മാറുന്ന എല്ലാ പ്രതിഭാസങ്ങളും പ്രതിനിധീകരിക്കാൻ അതിനെ ഉപയോഗിക്കാം ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം പോലും കാലത്തിനനുസരിച്ച് തുടർച്ചയായി മാറുന്നു ഒരു ട്രിഗർ അതുമായി ബന്ധപ്പെട്ട എല്ലാ നെറ്റ്വർക്കുകളും ഉത്തേജിപ്പിക്കാൻ കാരണമാകുന്നു അതിനാലാണ് ഇതിനെ വിപുലീകൃത അനുഭവം എന്ന് വിളിക്കാൻ കഴിയുന്നത് കൂടുതൽ കണക്ഷനുകൾ നൽകുതിന് അനുസരിച്ച് പഠിതാവിന് പുതിയ പഠനവുമായി കൂടുതൽ അറ്റാച്ചുചെയ്യാൻ കഴിയും ഈ പ്രക്രിയ പുതിയ പഠനം വീണ്ടെടുക്കുന്നതിന് ഒന്നിലധികം അവസരങ്ങൾ നൽകുന്നു കാരണം നിങ്ങൾക്ക് അത് വീണ്ടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അത് സംഭരിച്ചിട്ടുണ്ടെങ്കിലും അത് സംഭരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല അത് സംഭരിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അത് വീണ്ടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പ്രയോജനപ്പെടുന്നില്ല ദീർഘകാല മെമ്മറി വിശാലമായി ഡിക്ലറേറ്റീവ് മെമ്മറി നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്നിങ്ങനെ തരംതിരിക്കാം ഇന്നത്തെ കണക്കനുസരിച്ച് ന്യൂറോ സയന്റിസ്റ്റുകളിൽ ഭൂരിഭാഗവും ഇതിനെ ഈ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ന്യൂറോ സയന്റിസ്റ്റുകൾക്ക് ഈ വർഗ്ഗീകരണം മാറ്റാം അല്ലെങ്കിൽ ഘടകങ്ങൾ ചേർക്കാം അല്ലെങ്കിൽ ലയിപ്പിക്കാം നമുക്കറിയില്ല ഡിക്ലറേറ്റീവ് മെമ്മറി പേരുകൾ വസ്തുതകൾ സംഗീതം വസ്തുക്കൾ എന്നിവ ഓർമ്മിക്കുന്നത് വിവരിക്കുന്നു ഇത് ഹിപ്പോകാമ്പസും സെറിബ്രവും പ്രോസസ്സ് ചെയ്യുന്നു പ്രവർത്തിക്കുന്ന മെമ്മറിയിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്നതും ദീർഘകാല മെമ്മറിയിലേക്ക് മാറ്റുന്നതുമാണ് ഹിപ്പോകാമ്പസ് എന്ന് നമ്മൾ പരാമർശിച്ചു ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ നിന്ന് തിരിച്ചുവിളിക്കുന്നത് ഏതാണ്ട് അനായാസമാണ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ നിന്ന് വ്യത്യസ്തമായി ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ സംഭരിച്ചിരിക്കുന്നവയെല്ലാം ഓർമിക്കുന്നത് എളുപ്പമാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എപ്പിസോഡിക് മെമ്മറി സെമാന്റിക് മെമ്മറി എന്നിങ്ങനെ വിഭജിക്കാം എപ്പിസോഡിക് മെമ്മറി എന്നത് നമ്മുടെ സ്വന്തം ചരിത്രത്തിലെ സംഭവങ്ങളുടെ ബോധപൂർവമായ മെമ്മറിയെ സൂചിപ്പിക്കുന്നു ഒരു സംഭവം നടന്ന സമയവും സ്ഥലവും തിരിച്ചറിയാൻ ഇത് നമ്മളെ സഹായിക്കുകയും സ്വത്വബോധം നൽകുകയും ചെയ്യുന്നു അനുഭവം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയി ഞാൻ ഓർക്കുന്നു മുഴുവൻ കാര്യങ്ങളും ഒരു എപ്പിസോഡാണ് ഞാൻ പോയി ഒരു സിനിമ കണ്ടുഎല്ലാ വിശദാംശങ്ങളും ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല പക്ഷേ ഞാൻ അനുഭവിച്ച സംഭവത്തിന്റെ ചില വശങ്ങൾ എനിക്ക് ഓർമിക്കാൻ കഴിയും വസ്തുതകളെയും ഡാറ്റയെയും കുറിച്ചുള്ള അറിവാണ് സെമാന്റിക് മെമ്മറി അത് ഏതെങ്കിലും ഇവന്റുമായി ബന്ധപ്പെട്ടിരിക്കില്ല താജ്മഹൽ ആഗ്രയിലാണെന്ന് നമുക്കറിയാം അത് ഒരു സെമാന്റിക് മെമ്മറിയാണ് സമയം എങ്ങനെ പറയും രണ്ട് സംഖ്യകളെ എങ്ങനെ ഗുണിക്കാംഅങ്ങിനെയുള്ള ഒരു കൂട്ടം കാര്യങ്ങളെ നിങ്ങൾക്ക് സെമാന്റിക് മെമ്മറി എന്ന് വിളിക്കാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാർഗിൽ യുദ്ധം ഉണ്ടായിരുന്നുവെന്ന് ഓർമിക്കുന്ന സൈന്യത്തിലെ ഒരു സൈനികൻ സെമാന്റിക് മെമ്മറി ഉപയോഗിക്കുന്നു ഒരു മുൻ സൈനികനെന്ന നിലയിൽ കാർഗിൽ യുദ്ധം നടന്നതായി അദ്ദേഹം ഓർക്കുന്നു അദ്ദേഹം അതിൽ പങ്കെടുത്തെങ്കിൽ ആ യുദ്ധത്തിലെ അനുഭവങ്ങൾ ഓർമ്മിക്കുന്നത് എപ്പിസോഡിക് മെമ്മറിയാണ് അവ ശ്രദ്ധേയമായ അനുഭവങ്ങളാണോയെന്ന് അവനറിയാം അതിലെ അനുഭവത്തിന്റെ ഓരോ നിമിഷവും അദ്ദേഹം ഓർക്കും അത് ഒരു എപ്പിസോഡിക് മെമ്മറിയാണ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ പ്രോസിജ്വറൽ മെമ്മറി പെർസെപ്ച്വൽ പ്രാതിനിധ്യ സംവിധാനം ക്ലാസിക്കൽ കണ്ടീഷനിംഗ് നോൺ അസ്സോസിയേറ്റിവ് ലേണിംഗ് എന്നിവയുണ്ട് പ്രോസിജ്വറൽ മെമ്മറി മോട്ടോർ കോഗ്നിറ്റീവ് കഴിവുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന എന്തെങ്കിലും എങ്ങനെ ചെയ്യാമെന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പല്ല് തേക്കുന്നത് പോലുള്ള ലളിതമായ ഒരു കാര്യം എടുക്കുക പല്ല് തേയ്ക്കുന്നത് ഒരു മോട്ടോർ വൈദഗ്ദ്ധ്യം അല്ലെങ്കിൽ നിങ്ങൾ പരിശീലിച്ച ഒന്നാണ് കൂടാതെ നിങ്ങൾ എത്രനേരം ബ്രഷ് ചെയ്യണമെന്നും ഏത് ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നതെന്നും ഒരു വൈജ്ഞാനിക മാനമുണ്ട് ഏത് സമയത്ത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതെല്ലാം വൈജ്ഞാനിക തീരുമാനങ്ങളാണ് സാധാരണയായി പ്രൊസീജറൽ മെമ്മറിക്ക് മോട്ടോർ കോഗ്നിറ്റീവ് കഴിവുകൾ ഉണ്ടാകും പല്ല് തേക്കുക സൈക്കിൾ ഓടിക്കുക കാർ ഓടിക്കുക അല്ലെങ്കിൽ ഒരു സാധാരണ ഡിഫറൻഷ്യൽ സമവാക്യം സോൾവ് ചെയ്യുക എന്നിവയാണ് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്താം നൈപുണ്യ പരിശീലനം തുടരുമ്പോൾ ഈ ഓർമ്മകൾ കൂടുതൽ കൂടുതൽ കാര്യക്ഷമമായിത്തീരുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ തൊഴിൽ എല്ലാ ദിവസവും സാധാരണ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ വ്യക്തമായും കൃത്യമായി എന്താണ് നടപടിക്രമമെന്ന് കണ്ടെത്താൻ നിങ്ങൾ അധികം പരിശ്രമിക്കേണ്ടതില്ല പ്രോസിജ്വറൽ മെമ്മറിയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾ ആവർത്തിച്ചുള്ള പരിശീലനം കാരണം കാര്യക്ഷമമാകുന്നു അനുബന്ധ പ്രവർത്തനങ്ങൾ ചെറിയ ബോധപൂർവമായ ചിന്തയോടെ നടത്താൻ കഴിയും ഞാൻ ഇപ്പോൾ കൃത്യമായി ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ബോധപൂർവ്വം ചിന്തിക്കേണ്ടതില്ല അടുത്ത ഘട്ടം എന്താണ് അതായത് മസ്തിഷ്ക പ്രക്രിയ റിഫ്ലെക്റ്റീവ് മോഡ് എന്ന് വിളിക്കുന്നതിൽ നിന്ന് റിഫ്ലെക്സിവ് മോഡിലേക്ക് മാറുന്നു അതിനർത്ഥം കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കുന്നതുപോലെയുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വിശദാംശങ്ങളും എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ലായിരിക്കാം ഇപ്പോൾ കൃത്യമായി എന്താണ് ചെയ്യേണ്ടത് ഘട്ടങ്ങളുടെ ക്രമം എന്താണ് എന്നൊക്കെ ഞാൻ ഒന്ന് കൂടി നോക്കേണ്ടി വരും അതിനുശേഷം ഞാൻ ഒരു നിഗമനത്തിലെത്തുന്നു

അതേസമയം ഞാൻ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നുണ്ടായിരുന്നെകിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതില്ല അത് റിഫ്ലെക്സിവ് ആയിത്തീരുന്നു മാത്രമല്ല നിങ്ങൾ ഇവന്റ് ട്രിഗർ ചെയ്തുകഴിഞ്ഞാൽ അത് താനെ സംഭവിക്കുന്നു സ്വപ്രേരിതമായി നടപ്പിലാക്കുന്ന നിരവധി വൈജ്ഞാനിക കഴിവുകൾ പ്രോസിജ്വറൽ മെമ്മറിയെ ആശ്രയിച്ചിരിക്കുന്നു എന്താണ് ഈ വൈജ്ഞാനിക കഴിവുകൾ ഒരു പുസ്തകം വായിക്കുക രാഗങ്ങൾ തിരിച്ചറിയുക ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കണ്ടെത്തുക ഇവയെല്ലാം സാധാരണയായി യാന്ത്രികമായി നടപ്പിലാക്കുന്നു അവ പ്രോസിജ്വറൽ മെമ്മറിയെ ആശ്രയിച്ചിരിക്കുന്നു പെർസെപ്ച്വൽ പ്രാതിനിധ്യ സംവിധാനത്തെക്കുറിച്ച് പിആർഎസ് മറ്റൊരു രസകരമായ കാര്യമുണ്ട് ഇത് വാക്കുകളുടെ ഘടനയെയും രൂപത്തെയും സൂചിപ്പിക്കുന്നു കൂടാതെ മെമ്മറിയിലുള്ള വസ്തുക്കളെ മുൻകാല അനുഭവം വഴി വ്യക്തമായി തിരിച്ചുവിളിക്കാതെ തന്നെ ആവശ്യപ്പെടാം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് ആരോ അഞ്ച് അക്ഷരങ്ങൾ ഉള്ള ഒരു വാക്ക് നൽകുന്നു അതിൽ രണ്ട് അക്ഷരങ്ങൾ കാണുന്നില്ല നിങ്ങളുടെ മുൻ അനുഭവത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് അത് പൂരിപ്പിക്കാനാകും അതിനു ആ വാക്കിന്റെ അഞ്ച് അക്ഷരങ്ങളും നിങ്ങൾക്ക് നൽകേണ്ട ആവശ്യമില്ല വ്യത്യസ്ത വിചിത്രമായ ഒബ്ജക്റ്റ് ഉള്ള ചില ഡ്രോയിംഗ് കാണിക്കുന്നു ഉദാഹരണത്തിന് തലയിൽ രണ്ട് കൊമ്പുകളുള്ള ഒരു മനുഷ്യരൂപംനിങ്ങളുടെ അനുബന്ധ മുൻ അനുഭവത്തെ അടിസ്ഥാനമാക്കി വസ്തു യഥാർത്ഥ ലോകത്ത് നിലനിൽക്കില്ലെന്ന് ഉടൻ തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയും കാരണം രണ്ട് കൊമ്പുകളുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല നമ്മളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ കൊമ്പുള്ള ആളുകളുണ്ടെന്ന് ഒരു റിപ്പോർട്ടും ഉണ്ടായിട്ടില്ല ഇതിനെയാണ് നമ്മൾ പെർസെപ്ച്വൽ പ്രാതിനിധ്യ സംവിധാനം എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് അറിയപ്പെടുന്ന ക്ലാസിക്കൽ കണ്ടീഷനിംഗ് ഉണ്ട് പാവ്ലോവിയൻ കണ്ടീഷനിംഗ് ഒരു ജീവിയ്ക്ക് ഒരു വ്യവസ്ഥാപരമായ ഉത്തേജനം ഉണ്ടാകുമ്പോൾ ആ ജീവികളിൽ നിന്ന് നിരുപാധികമായ പ്രതികരണം സംഭവിക്കുന്നു ഈ രീതിയിലുള്ള പഠനത്തെ അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് വിളിക്കുന്നു നിങ്ങൾ തീവ്രമായി എന്തെങ്കിലും പ്രവർത്തിക്കുന്നുവെന്ന് പരിഗണിക്കുക അതേ കെട്ടിടത്തിൽ പെട്ടെന്ന് ഒരു അലാറം നിങ്ങൾ കേൾക്കുന്നു ഇത് അനുബന്ധ പഠനമാണെങ്കിൽ നിങ്ങൾക്ക് ആ അലാറം തീ എന്ന മുന്നറിയിപ്പുമായി ബന്ധപ്പെടുത്താം ഫയർ അലാറം വരുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അതൊക്കെ പാലിക്കും ഈ അലാറവും അതിനെ തുടർന്ന് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളുടെ ക്രമവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അവസ്ഥയെ ക്ലാസിക്കൽ കണ്ടീഷനിംഗ് എന്ന് വിളിക്കുന്നു നോൺ അസ്സോസിയേറ്റീവ് പഠനങ്ങൾ രണ്ട് ശീലങ്ങളും സംവേദനക്ഷമതയും ബോധപൂർവമായ ശ്രദ്ധ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് പ്രതികരിക്കാതിരിക്കാനും പരിസ്ഥിതിയോട് സ്വയം പരിചിതരാകാനും പഠിക്കാൻ ശീലങ്ങൾ നമ്മളെ സഹായിക്കുന്നു പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നതിലൂടെ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് വരുന്ന എല്ലാ സെൻസറി ഇൻപുട്ടിനോടും ഞാൻ പ്രതികരിക്കുന്നില്ല സാധാരണയായി നിങ്ങൾ ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലാത്ത തികച്ചും പുതിയ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങളെത്തന്നെ അവിടെ എത്തിക്കുന്നതിന് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ നിങ്ങൾ അവിടെ ജോലി ചെയ്യുകയാണെങ്കിലോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ ഇൻപുട്ടുകൾ എല്ലാം വന്ന് ശല്യപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന ദൌത്യത്തിന് ഒരു പ്രയോജനവുമില്ലാത്ത അനാവശ്യ ഉത്തേജനങ്ങളെ അവഗണിക്കാൻ ശീലങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നു എന്നാൽ തികച്ചും വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ അത് ശീലമാക്കിയ ശേഷം അതിനോട് പ്രതികരിക്കും പരിസ്ഥിതിയുമായുള്ള ക്രമീകരണം അപ്രധാനമായ ഉത്തേജനങ്ങൾ തള്ളിക്കളയാൻ തലച്ചോറിനെ അനുവദിക്കുന്നു അതിനാൽ പ്രാധാന്യമുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും ഓഫീസിൽ ഇരിക്കുമ്പോഴോ ക്ലാസ് മുറിയിൽ ആയിരിക്കുമ്പോഴോ നമ്മൾ എല്ലായ്പ്പോഴും അങ്ങിനെയാണ് ചെയ്യുന്നത് അപ്രധാനമായ ഉത്തേജനങ്ങൾ സ്ക്രീൻ ചെയ്യേണ്ടതുണ്ട് അതും ആവശ്യമാണ് സംവേദനക്ഷമത ഇത് പ്രത്യേകിച്ച് വിഷമകരമായ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഉത്തേജകത്തോടുള്ള നമ്മുടെ പ്രതികരണം വർദ്ധിപ്പിക്കുന്നു അത്തരം ശബ്ദം വരുമ്പോൾ നമുക്കറിയാം അത് എന്തോ ഉടഞ്ഞു അല്ലെങ്കിൽ ഇത് ഒരു ഫയർ അലാറം അല്ലെങ്കിൽ ഒരു വലിയ വൈദ്യുത പൊള്ളൽ തുടങ്ങിയ ഏതെങ്കിലും ഒന്നിനെ പ്രതിനിധീകരിക്കുന്നു ഇത് ഭീഷണിപ്പെടുത്തുന്ന ഉത്തേജകമായി മാറുന്നു ഇത് ഒരു ഭീഷണിപ്പെടുത്തുന്ന ഉത്തേജകമാണെന്ന് തിരിച്ചറിയുന്ന നമ്മൾ ഓർമ്മകൾ നിർമ്മിക്കുന്നു ഒപ്പം അനുബന്ധ പഠനത്തിലൂടെ കൃത്യമായി എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസിലാക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ തീപിടിത്തം എടുക്കുകയാണെങ്കിൽ പല ഇന്ത്യൻ സന്ദർഭങ്ങളിലും അഗ്നിശമന ഉപകരണങ്ങളും മറ്റും ഉണ്ടായിരിക്കാം പക്ഷെ അവ ഉപയോഗിക്കാൻ പലർക്കും പരിശീലനം ലഭിച്ചിട്ടില്ല ഫയർ അലാറമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നു നമുക്കറിയാംപക്ഷെ നിങ്ങൾക്ക് അനുബന്ധ പഠനം ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ആ ഉത്തേജനത്തോട് ശരിക്കും പ്രതികരിക്കാൻ കഴിയില്ല വൈകാരിക മെമ്മറി വളരെ പ്രബലമായ പങ്ക് വഹിക്കുന്നു വൈകാരിക ഓർമ്മകൾ സ്പഷ്ടവും വ്യക്തവുമാണ് മുമ്പത്തെ യൂണിറ്റിൽ നമ്മൾ പരാമർശിച്ചു വൈകാരിക പഠനവും മെമ്മറിയും പ്രോസസ്സ് ചെയ്യുന്നതിൽ അമിഗ്ഡാല വളരെയധികം പങ്കാളിയാണ് അത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ചിലപ്പോൾ ഒരു അനുഭവം കേവലം ഒരു വൈകാരിക സംഗ്രഹമായി അല്ലെങ്കിൽ സംഭവത്തിന്റെ സംഗ്രഹമായി സംഭരിക്കപ്പെടുന്നു അതായത് വിശദാംശങ്ങൾ നമ്മൾ ഓർക്കുന്നില്ല പക്ഷേ നമ്മൾ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഓർക്കുന്നു അല്ലെങ്കിൽ ആ സമയത്ത് നല്ലതോ ചീത്തയോ സങ്കടമോ ദേഷ്യമോ തോന്നി മുതലായവ നമ്മൾ ആ ഭാഗം മാത്രം ഓർക്കുന്നു നമുക്ക് അറിയാത്തതും വിശദാംശങ്ങൾ ഓർമിക്കാൻ കഴിയാത്തതുമായ അത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഓർമിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ നമ്മൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഓർമിക്കാൻ കഴിയും വികാരങ്ങൾ പുതിയ പഠനത്തിന്റെ നേട്ടത്തെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കും ക്ലാസ് മുറിയിലേക്ക് നടക്കുമ്പോൾ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ക്ലാസ് റൂമിനെക്കുറിച്ച് നെഗറ്റീവ് വികാരമില്ലെന്ന് അധ്യാപകൻ ഉറപ്പാക്കണം വികാരങ്ങൾ പഠനത്തെ ബാധിക്കുന്ന രണ്ട് വഴികളുണ്ട് ഒന്ന് പഠനം സംഭവിക്കുന്ന വൈകാരിക കാലാവസ്ഥയാണ് മറ്റൊന്ന് പഠന ഉള്ളടക്കവുമായി വികാരങ്ങൾ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം മേഖലകളിൽ ഇത്തരംഅനുഭവമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ചില വിഷയങ്ങൾ ഇഷ്ടമാണ് കൂടാതെ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല വിഷയം ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് വൈജ്ഞാനിക തലത്തിൽ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സവിശേഷതയും ഇല്ല പക്ഷേ നമ്മൾ ഇപ്പോഴും ഉള്ളടക്കത്തെക്കുറിച്ച് ഒരു വികാരം വികസിപ്പിക്കുന്നു വൈകാരിക കാലാവസ്ഥ ക്ലാസ് റൂം അവസ്ഥയും സ്ഥാപന സാഹചര്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഞാൻ സഹായം ആവശ്യപ്പെടുമ്പോൾ ടീച്ചർ എന്നെ കളിയാക്കാറുണ്ടോ ആളുകൾ ചോദിക്കുമ്പോൾ ഉത്തരം ഒരുതരം നെഗറ്റീവ് ആണോ അതായത് ടീച്ചർ എന്നെ കളിയാക്കുന്നു എങ്കിൽ പിന്നെ ഞാൻ ടീച്ചറെ സമീപിക്കുക പോലും ഇല്ല ഞാൻ വിജയിക്കുമോ എന്ന് ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് വിദ്യാർത്ഥികളുടെ ഉത്തരമെങ്കിൽ അത് പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു വളരെ നെഗറ്റീവ് വികാരമായി വർത്തിക്കുന്നു ഞാൻ എന്ത് ചെയ്താലും അയാൾ ശ്രദ്ധിക്കില്ല ഞാൻ എന്തിന് ചെയ്യണം ഞാൻ എന്തിന് എന്നെത്തന്നെ പരിപാലിക്കണം ഇതൊക്കെ സംഭവിക്കുന്ന ഒരുതരം വ്യക്തമായ കാര്യമാണ് സ്ഥാപനം എന്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ടോ സ്ഥാപനം എന്നാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് അത് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പലും ആകാം എന്റെ ആവശ്യങ്ങളോട് പരോക്ഷമായോ നേരിട്ടോ പ്രതികരിക്കുന്നവരാണ് അവർ ഇതിനെയാണ് നമ്മൾ വൈകാരിക അവസ്ഥ എന്ന് വിളിക്കുന്നത് ഇത് വളരെ പ്രധാനമാണ് രണ്ടാമത്തെ യൂണിറ്റിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത് പരാമർശിച്ചത് ഇൻസ്ട്രക്ഷൻ സാഹചര്യങ്ങൾ സാഹചര്യത്തിന്റെ ഒരു വശം വൈകാരിക അവസ്ഥയാണ് ഈ ചോദ്യങ്ങളോടുള്ള അബോധാവസ്ഥയിലുള്ള പ്രതികരണങ്ങൾ വിദ്യാർത്ഥികളെ അധ്യാപകരിൽ നിന്നോ ഭാവി പഠന അനുഭവങ്ങളിൽ നിന്നോ അടുത്തേക്കോ ദൂരെക്കോ മാറ്റുന്നു അധ്യാപകനോ സ്ഥാപനമോ എന്തുചെയ്യണം നിങ്ങൾ പതിവായി എങ്ങനെയെങ്കിലും ആശയവിനിമയം നടത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുന്നുവെന്നും അവരുടെ പഠനത്തിന് നമ്മൾ ഉത്തരവാദികളാണെന്നും ഒരു വിദ്യാർത്ഥിക്ക് മനസിലാക്കാൻ കഴിയണം ഒരു വിദ്യാർത്ഥിക്ക് മനസിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല സിസ്റ്റം അവനെ ഒരു മണ്ടനെന്നു കുറ്റപ്പെടുത്തുന്നു നേരിട്ടോ അല്ലാതെയോ അവർ ഉറപ്പ് നൽകുന്നത് തുടർന്നില്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരിൽ നിന്ന് പിന്തിരിയാൻ തുടങ്ങും അത് ഭാവി പഠനത്തെ ബാധിക്കും ഒരു രാസ പ്രതിഭാസമുണ്ട് നമ്മൾ മെക്കാനിസം മനസിലാക്കേണ്ടതില്ല എങ്കിലും ഒരു പൂർണത വരുത്താൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു പോസിറ്റീവ് ആണെന്ന് തോന്നുമ്പോൾ എൻഡോർഫിനുകൾ പുറത്തുവിടുന്നു ഇത് ഒരു ഹോർമോണാണ് അത് പഠനാനുഭവത്തെ ആനന്ദകരമാക്കുന്നു തലച്ചോറിൽ എൻഡോർഫിനുകൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷം തോന്നുന്നു നമ്മൾക്ക് നെഗറ്റീവ് എന്ന് തോന്നുമ്പോൾ കോർട്ടിസോൾ പുറത്തിറങ്ങുന്നു ഇത് പഠന ചുമതലയിൽ ശ്രദ്ധ കുറയ്ക്കുന്നു വിദ്യാർത്ഥികളും ഉള്ളടക്കവും വിദ്യാർത്ഥികൾ വൈകാരികമായി സമീപിച്ച പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കം ഓർമിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് ആ പ്രത്യേക വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ പ്രത്യേക വിഷയത്തെക്കുറിച്ചോ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ട് കാരണങ്ങളെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതില്ല എനിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വൈകാരിക നിക്ഷേപം നടത്തുന്നു അത് ആനന്ദകരമായ അനുഭവങ്ങളും മറ്റും നൽകുന്നു എന്താണ് ഇതിനർത്ഥം അദ്ധ്യാപകൻ വിദ്യാർത്ഥികളെ പഠന ഉള്ളടക്കവുമായി വൈകാരികമായി ഉൾപ്പെടുത്തണം ഇതെല്ലാം വൈജ്ഞാനികമല്ല നമ്മൾ അത് എങ്ങനെ ചെയ്യും സിമുലേഷനുകൾ ജേണൽ റൈറ്റിംഗ് സംഭവവികാസങ്ങൾ യഥാർത്ഥ ലോക അനുഭവങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ ഉള്ളടക്കവുമായി വൈകാരികമായി ബന്ധപ്പെടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് അധ്യാപകന് ഉപയോഗിക്കാവുന്ന ചില തന്ത്രങ്ങൾ ഇവയാണ് ആദ്യത്തേത് അധ്യാപകന് തന്നെ ഉള്ളടക്കവുമായി വൈകാരികമായി ബന്ധപ്പെടേണ്ടതുണ്ട് അത് വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന രീതിയിൽ പ്രതിഫലിക്കുന്നു അധ്യാപകനെ ഉള്ളടക്കവുമായി വൈകാരികമായി ബന്ധിപ്പിക്കുമ്പോൾ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഉള്ളടക്കവുമായി വൈകാരികമായി ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് അതിനർത്ഥം ആ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവ് ഇമോഷൻ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ആ വിവരങ്ങൾ വർക്കിംഗ് മെമ്മറിയിൽ നിന്ന് ദീർഘകാല മെമ്മറിയിലേക്ക് മാറ്റുകയും അത് അവിടെ നിലനിർത്തുകയും ചെയ്യും ഇപ്പോൾ പഠനത്തിന്റെയും നിലനിർത്തലിന്റെയും പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു ഇവ രണ്ടും വ്യത്യസ്ത പ്രതിഭാസങ്ങളാണ് ഒന്നുകിൽ കാണാപ്പാഠം ചെയ്തുകൊണ്ട് നമുക്ക് ഹ്രസ്വകാലത്തേക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിയും നിർദ്ദിഷ്ട പ്രക്രിയകളിലൂടെ നമുക്ക് ഒരു ഹ്രസ്വകാലത്തേക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിയും കാലയളവ് കുറച്ച് മിനിറ്റ് ദിവസങ്ങൾ അല്ലെങ്കിൽ സെമസ്റ്റർ അവസാനിക്കുന്നത് വരെ ആകാം തുടർന്ന് പ്രായോഗികമായി അത് നഷ്ടപ്പെടും എനിക്ക് ഉറപ്പുണ്ട്5 അല്ലെങ്കിൽ 6 വർഷം മുമ്പ് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാകില്ല നിങ്ങൾ ആ വിവരങ്ങൾ പതിവായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ അതിന്റെ ചില സൂചനകൾ ഓർത്തിരിക്കും പക്ഷേ വിശദാംശങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുകയില്ല നമ്മൾ മെമ്മറി തുടർച്ചയായി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് പഠനത്തിൽ എല്ലായ്പ്പോഴും ദീർഘകാല നിലനിർത്തൽ ഉൾപ്പെടുന്നില്ല ആ സെമസ്റ്ററിൽ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ദീർഘകാലത്തേക്ക് നിലനിർത്തുന്നുവെന്ന് ഇതിനർത്ഥമില്ല നിലനിർത്തൽ എന്താണ് സൂചിപ്പിക്കുന്നത് ഭാവിയിൽ കൃത്യമായി കണ്ടെത്താനും തിരിച്ചറിയാനും വീണ്ടെടുക്കാനും കഴിയുന്ന തരത്തിൽ ദീർഘകാല മെമ്മറി പഠനത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണിത് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയുടെ അളവ് ദൈർഘ്യം സംഭവിച്ച റിഹേഴ്സൽ തിരിച്ചറിഞ്ഞേക്കാവുന്ന നിർണായക ഘടകങ്ങൾ വിദ്യാർത്ഥികളുടെ പഠന പ്രൊഫൈൽമുൻകാല പഠനം എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു കൃത്യതയില്ലാത്ത പ്രക്രിയയാണ് നിലനിർത്തൽ കൃത്യമായി നടക്കുന്ന പ്രക്രിയ എന്താണ് നമുക്ക് അത്ര വിശദമായ വിവരങ്ങളില്ല പക്ഷേ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്വാധീനങ്ങളുണ്ടാക്കുന്ന ചില പോസിറ്റീവ് നെഗറ്റീവ് പ്രക്രിയകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകും നിലനിർത്തുന്നതിന് പഠിതാവ് ബോധപൂർവമായ ശ്രദ്ധ നൽകുക മാത്രമല്ല ദീർഘകാല സംഭരണ ശൃംഖലകളിലേക്ക് അന്തിമമായി ഏകീകരിക്കുന്നതിന് യുക്തിയും അർത്ഥവുമുള്ള ആശയപരമായ ചട്ടക്കൂടുകൾ നിർമ്മിക്കുകയും വേണം ദീർഘകാല മെമ്മറിയിൽ നിലനിർത്തുന്ന പ്രക്രിയ കൈമാറ്റം നിലനിർത്തൽ എന്നിവയെ നമ്മൾ വിശാലമായി ഒരു റിഹേഴ്സൽ എന്ന് വിളിക്കുന്നു പഠിതാവിന് പുതിയ പഠനത്തിന് യുക്തിയും അർത്ഥവും നൽകുന്നത് പ്രോസസ്സ് ചെയ്യുന്നതിനും പുനരുൽപ്പാദിപ്പിക്കുന്നതിനും മതിയായ സമയമുണ്ടെങ്കിൽ സംഭവിക്കാം അതായത് ആ വിവരങ്ങൾ പരിശീലിപ്പിക്കുന്നതിനോ പ്രോസസ്സ് ചെയ്യുന്നതിനോ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമയം നൽകുന്നില്ലെങ്കിൽ അഥവാ നിങ്ങൾ ഒരു പുതിയ വിഷയത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ റിഹേഴ്സൽ പര്യാപ്തമാകില്ല മാത്രമല്ല അത് മെമ്മറിയിൽ നിലനിർത്താൻ സാധ്യതയില്ല അധ്യാപകർ പാഠ്യപദ്ധതി അമിതമായി ഓവർലോഡ് ചെയ്യുന്നതിനാൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നത് ഇതാണ് കൂടുതൽ കോഴ്സുകൾ നടത്തുക ഓരോ കോഴ്സിലും പഠിപ്പിക്കേണ്ട മെറ്റീരിയലുകളുടെ അളവ് അസാധാരണമായി വർദ്ധിക്കുന്നു അതിനാൽ ക്ലാസ് റൂമിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏതെങ്കിലും വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും സമയമില്ല വിവരങ്ങളുടെ തുടർച്ചയായ പുനർനിർമ്മാണത്തെ ഒരു റിഹേഴ്സൽ എന്ന് വിളിക്കുന്നു റിഹേഴ്സലില്ലാതെ വൈജ്ഞാനിക ആശയങ്ങൾ ദീർഘകാലമായി നിലനിർത്തുന്നില്ല ഇത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ ദീർഘകാലം നിലനിർത്താൻ സാധ്യതയില്ല നിർദ്ദിഷ്ട പഠന ഫലങ്ങൾക്ക് അനുയോജ്യമായ സമയവും റിഹേഴ്സലും അധ്യാപകർ പരിഗണിക്കേണ്ടതുണ്ട് ഏത് തരത്തിലുള്ള റിഹേഴ്സൽ ആവശ്യമാണ് ചിലതിന് ലളിതമായവ ആവശ്യമായി വന്നേക്കാം ചിലതിന് നീണ്ട റിഹേഴ്സലുകൾ ആവശ്യമായി വന്നേക്കാം അത് ഉള്ളടക്കത്തെയും അധ്യാപകൻ എടുക്കുന്ന തീരുമാനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള പഠിതാവിന്റെ കഴിവ് ഉപയോഗിക്കുന്ന അധ്യാപന രീതിയെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പിന്നീടുള്ള യൂണിറ്റുകളിൽ നിലനിർത്താൻ ഇടയാക്കുന്ന അധ്യാപനത്തിന് ഉപയോഗിക്കുന്ന വിവിധ ഘടകങ്ങളിലും തന്ത്രങ്ങളിലും നമ്മൾ ധാരാളം സമയം ചെലവഴിക്കാൻ പോകുന്നത് റിഹേഴ്സൽ തന്നെ ടീച്ചർ ആരംഭിച്ചതും ടീച്ചർ സംവിധാനം ചെയ്യുന്നതുമാണ് റിഹേഴ്സൽ പൂർണ്ണമായും വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്തമല്ല ഏതുതരം റിഹേഴ്സലാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ വിദ്യാർത്ഥിയെ പിന്തുണയ്ക്കുകയോ സഹായിക്കുകയോ ചെയ്യേണ്ടതുണ്ട് അത് നയിക്കാൻ അധ്യാപകന് കഴിയണം പ്രധാന നിഗമനം റിഹേഴ്സൽ സമാരംഭവും ദിശയും ചെയേണ്ടത് അധ്യാപകനാണ് രണ്ട് റിഹേഴ്സൽ തന്ത്രങ്ങളുണ്ട് അതിലൊന്ന് ലളിതമായ റിഹേഴ്സൽ തന്ത്രമാണ് നമുക്കെല്ലാവർക്കും പരിചിതമാണ് ലളിതമായ ആവർത്തനം സ്കൂൾ സമ്പ്രദായത്തിൽ നാമെല്ലാവരും ഇതിലൂടെ കടന്നുപോയെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഒരു കവിത ഓർക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളടക്കം ഓർക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് ഉരുവിട്ട് പഠിക്കുക അത് നിങ്ങൾ ആവർത്തിക്കുന്നു ഇത് വളരെ ദൈർഘ്യമേറിയതാണെങ്കിൽ ഒരു കവിതയിൽ നിരവധി ചരണങ്ങളുണ്ട് ഓരോന്നായി നിങ്ങൾ ആവർത്തിക്കുകയും അത് പൂർണ്ണമായും നിലനിർത്തിയിട്ടുണ്ടെന്ന് തോന്നുകയും ചെയ്ത ശേഷം നിങ്ങൾ അടുത്തതിലേക്ക് നീങ്ങുകയും ഇത് സംയോജിപ്പിക്കുകയും ചെയ്യുക ഇതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ആവർത്തനം എന്ന് വിളിക്കുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന ലളിതമായ റിഹേഴ്സൽ തന്ത്രങ്ങളാണ് ഇവ രണ്ടും മറ്റൊരു വിശദമായ റിഹേഴ്സൽ തന്ത്രം പരാഫ്രേസിംഗ് ആണ് വിദ്യാർത്ഥികൾ തങ്ങളിലുള്ള ആശയങ്ങൾ സ്വന്തം വാക്കുകളിൽ പറയുന്നു ഇത് പിന്നീടുള്ള സംഭരണത്തിന്റെ പരിചിതമായ വഴിയായി മാറുന്നു ഓരോ വിദ്യാർത്ഥിക്കും സ്വന്തം വാക്കുകളിൽ മാറ്റിയെഴുതാൻ കഴിയുമെങ്കിൽ ആ വാക്കുകൾ ശൈലികൾ പിന്നീടുള്ള സംഭരണത്തിനുള്ള സൂചനകളായി മാറും നിങ്ങൾ ഏതെങ്കിലും സൂചനകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആശയവും അതുപോലുള്ള മറ്റ് ആശയങ്ങളും അല്ലെങ്കിൽ ആ ആശയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഓർമ്മിക്കാൻ കഴിയും തിരഞ്ഞെടുക്കുന്നതും കുറിപ്പ് എഴുതി എടുക്കുന്നതുമാണ് മറ്റൊരു തന്ത്രം വിദ്യാർത്ഥികൾ വാചകങ്ങളും പ്രഭാഷണങ്ങളും അവലോകനം ചെയ്യുന്നു നിർണ്ണായകവും പ്രധാനപ്പെട്ടതുമായ ഭാഗങ്ങൾ തീരുമാനിക്കുന്നു തീരുമാനമെടുക്കുന്നതിനുള്ള മാനദണ്ഡം അധ്യാപകനിൽ നിന്നോ രചയിതാവിൽ നിന്നോ കൂടാതെ അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നോ വരുന്നു വിദ്യാർത്ഥികൾ ആശയം പരാഫ്രേസ് ചെയ്യുകയും അവരുടെതായ വാക്കുകളിൽ കുറിപ്പുകളിൽ എഴുതുകയും ചെയ്യുന്നു പ്രവചിക്കുന്നു ഉള്ളടക്കത്തിന്റെ ഒരു ഭാഗം പഠിച്ച ശേഷം വിദ്യാർത്ഥികൾ പഠിക്കേണ്ട കാര്യങ്ങൾ പ്രവചിക്കുന്നു കൂടാതെ ഉള്ളടക്കത്തെക്കുറിച്ച് അധ്യാപകന് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാം അത് റിഹേഴ്സലിന്റെ ഒരു മാർഗമാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉള്ളടക്കം നോക്കുകയും അവർ ടീച്ചർ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ പ്രവചിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽഅവർ ഉള്ളടക്കം വീണ്ടും അവലോകനം ചെയ്യുകയും ഉത്തരങ്ങളുമായി വരികയും ചെയ്യാം ചോദ്യം ചെയ്യൽ ഉള്ളടക്കം പഠിച്ച ശേഷം വിദ്യാർത്ഥികൾ ഉള്ളടക്കത്തെക്കുറിച്ച് ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നു ചോദ്യം ഫലപ്രദമാകുന്നതിന് അവ പ്രസക്തമായ എല്ലാ വൈജ്ഞാനിക തലങ്ങളിലും ഉൾപ്പെടണം സംഗ്രഹിക്കൽ അല്ലെങ്കിൽ സമാപനം വിദ്യാർത്ഥികൾ പഠിച്ച പ്രധാന മെറ്റീരിയലുകളെയോ കഴിവുകളെയോ പ്രതിഫലിപ്പിക്കുകയും സംഗ്രഹിക്കുകയും ചെയ്യുന്നു നമ്മൾ ചില ഇൻസ്ട്രക്ഷൻ ഘടകങ്ങളോ റിഹേഴ്സൽ തന്ത്രങ്ങളോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ നിങ്ങളുടെ സ്വന്തം റിഹേഴ്സൽ തന്ത്രം രൂപകൽപ്പന ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും അത്തരം 30 40 റിഹേഴ്സൽ തന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ നിലവിൽ ഉണ്ട് അധ്യാപകർക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നല്ല നിലനിർത്തലിനായി നമ്മൾ ഇപ്പോൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളെയും അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികളെ റിഹേഴ്സൽ പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഘടകങ്ങളും തന്ത്രങ്ങളും നൽകുക തന്ത്രം എന്നാൽ ഏത് ക്രമത്തിലാണ് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ ഘടകങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പഠനത്തിന്റെയും പഠനശീലത്തിന്റെയും ഭാഗമാകുന്നതുവരെ തുടർച്ചയായി റിഹേഴ്സൽ തന്ത്രങ്ങൾ പരിശീലിപ്പിക്കാൻ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുക അവർ അതിനോട് പൊരുത്തപ്പെടണം അല്ലെങ്കിൽ അത് പ്രതിഫലന മോഡിനേക്കാൾ റിഫ്ലെക്സിവ് മോഡിലേക്ക് പോകണം റിഹേഴ്സൽ പ്രസക്തമായി സൂക്ഷിക്കുക അപ്രസക്തമായ ഒരു തരം റിഹേഴ്സലാണെങ്കിൽ അത് നിലനിർത്തുന്നതിലേക്ക് നയിക്കില്ല ഉദാഹരണത്തിന് അധ്യാപകന്റെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളുടെ പഠനത്തിന് പ്രസക്തമാകണമെന്നില്ല അതിനാൽ നിങ്ങളുടെ റിഹേഴ്സൽ തന്ത്രമാണെന്ന് നിങ്ങൾ കരുതുന്നത് എന്തോ അത് സ്വയം കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾ ഉള്ളടക്കം വെറുതെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് റിഹേഴ്സലിന്റെ ഫലപ്രാപ്തിയുടെ വിശ്വസനീയമായ സൂചകമല്ലെന്ന് ഓർമ്മിക്കുക അധ്യാപകർക്കുള്ള മറ്റൊരു മാർഗ്ഗനിർദ്ദേശം സമപ്രായക്കാരോടും അധ്യാപകരോടും പഠിതാക്കൾ അവരുടെ റിഹേഴ്സൽ പറഞ്ഞുകേൾപ്പിക്കുക നിങ്ങൾ ചെയ്യുന്നതെന്തും അധ്യാപകർക്ക് സമയം ഉണ്ടെങ്കിൽ അവരോടോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സഹപാഠികളോട് പറഞ്ഞുകേൾപ്പിക്കുക റിഹേഴ്സൽ അർത്ഥവത്തായതും വിജയകരവുമാക്കുന്നതിന് കൂടുതൽ ദൃശ്യവും സന്ദർഭോചിതവുമായ സൂചനകൾ നൽകുക അതായത് ആ വിഷ്വൽ സൂചനകൾക്ക് ചുറ്റും എനിക്ക് മറ്റ് സൂചനകൾ സൃഷ്ടിക്കാൻ കഴിയുമോ എനിക്ക് ഒരു ഡയഗ്രം വരയ്ക്കാൻ കഴിയും കൂടാതെ എനിക്ക് ഒരു ടെക്സ്റ്റ്ബോക്സ് ഇടാനും കഴിയും വിഷ്വൽ സൂചകങ്ങൾ എല്ലായ്പ്പോഴും വളരെ ഫലപ്രദമാണ് 3 ദിവസത്തിനുശേഷം നിലനിർത്തുന്നത് പ്രഭാഷണത്തിൽ നിന്ന് ആണെങ്കിൽ 10 ശതമാനവും പ്രകടനത്തിൽ നിന്ന് ആണെങ്കിൽ 20 ശതമാനവുമാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിച്ചെങ്കിലോ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതായി കാണിച്ചിട്ടുണ്ടെങ്കിലോ പോലും 3 ദിവസത്തിനുശേഷം നിലനിർത്തൽ 20 തന്നെ ആണ് വിഷ്വൽ മെറ്റീരിയൽ ചേർക്കുന്നത് നിലനിർത്താനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു കാരണം തലച്ചോറിന്റെ വിഷ്വൽ മെമ്മറി സിസ്റ്റത്തിന് സംഭരണത്തിനും തിരിച്ചുവിളിക്കാനും വളരെയധികം ശേഷിയുണ്ട് നിങ്ങൾക്ക് തലച്ചോറിന്റെ ഒരു പ്രധാന ഭാഗം ഉണ്ടെന്ന കാര്യം ഓർക്കണം നമ്മുടെ സെറിബ്രത്തിന്റെ പുറകിൽ വിഷ്വൽ കോർട്ടെക്സ് ഉണ്ട് അതിന് പ്രക്രിയകളും വിഷ്വൽ വിവരങ്ങൾ സംഭരിക്കുന്നതിന് വളരെയധികം ശേഷിയുണ്ട് അതിനാൽ നിങ്ങൾ ആ ശേഷി ഉപയോഗപ്പെടുത്തണം വാക്കാലുള്ളതും വിഷ്വൽ പ്രോസസ്സിംഗും പഠന പ്രക്രിയയിൽ കൂടുതൽ ഇടപഴകാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്നു പരിശീലനം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിലനിർത്തൽ മെച്ചപ്പെടുന്നു മാത്രമല്ല ഈ പ്രക്രിയ നിങ്ങളുടെ പ്രചോദനത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ പ്രചോദനം വർദ്ധിപ്പിക്കും മറ്റൊരു വശം വിശദീകരിക്കുന്നവർ പഠിക്കുന്നു എന്നതാണ് മറ്റൊരാൾക്ക് വിശദീകരിക്കുക എന്നതാണ് ഏറ്റവും മികച്ച മാർഗം സഹകരണ പഠന ഗ്രൂപ്പുകളിൽ ഈ ഘടകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ ചില നിലനിർത്തൽ തന്ത്രങ്ങളാണ് ഈ വിഷയം വിശാലമാണ് ഈ വിഷയത്തിൽ ധാരാളം അറിവുകൾ ഉണ്ട് അധ്യാപകർ ഇത് പര്യവേക്ഷണം ചെയ്യുകയും അവരുടെ വിദ്യാർത്ഥികളുടെ വിഷയം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന റിഹേഴ്സൽ തന്ത്രങ്ങൾ കണ്ടെത്തുകയും വേണം അഭ്യാസം നിങ്ങളുടെ കോഴ്സുകളിൽ ഉപയോഗിച്ച റിഹേഴ്സൽ തന്ത്രങ്ങളുടെ രണ്ട് ഉദാഹരണങ്ങളും അവയുടെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വീക്ഷണവും നൽകുക പരമാവധി 250 വാക്കുകൾ വീതം എഴുതുക ഈ മെയിലിൽ നിങ്ങളുടെ ഫലങ്ങൾ പങ്കിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മൾ അതിനെ വിലമതിക്കും മാത്രമല്ല അതിലൂടെ നമ്മുടെ സംവാദം തുടരാനും കഴിയും അടുത്ത യൂണിറ്റിൽ നിലനിർത്തൽ പഠനം കൈമാറ്റം എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് തലച്ചോറിനെ സഹായിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഘടകങ്ങൾ മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കും മൂന്നോ നാലോ ഇൻസ്ട്രക്ഷൻ ഘടകങ്ങൾ നമ്മൾ ഹ്രസ്വമായി കണ്ടു ആ ഘടകങ്ങളെ ക്ലാസ് റൂമിൽ എങ്ങനെ നടപ്പാക്കാമെന്ന് നമ്മൾ ഇപ്പോൾ കൂടുതൽ ആസൂത്രിതമായി പഠിക്കാം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി